കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രശസ്തമായ പരാജയങ്ങൾ കണ്ടുതുടങ്ങി ബോസ്റ്റൺ മോളാസസ് ദുരന്തം നമ്മൾ കണ്ടു അതിനുശേഷം ലിബർട്ടി കപ്പൽ പരാജയം കണ്ടു ഈ രണ്ട് കേസുകളിലും പ്രവർത്തനം ആരംഭിച്ച കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പരാജയം സംഭവിച്ചത് ബോസ്റ്റൺ മോളാസസ് പരാജയം അത് മൂന്ന് വർഷത്തിന് ശേഷം സംഭവിച്ചു ലിബർട്ടി കപ്പലിൽ ആദ്യ വർഷം മുതൽ നമുക്ക് പരാജയങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിക്കാൻ തുടങ്ങിയിരുന്നു കൂടാതെ കപ്പൽ തുറയിൽ സൂക്ഷിക്കുമ്പോൾ അത് രണ്ടായി പിളർന്നു കോമറ്റ് ദുരന്തം ഇപ്പോൾ പ്രശസ്തമായ മൂന്നാമത്തെ പരാജയം നമ്മൾ നോക്കുന്നു ഇതാണ് കോമറ്റ് ദുരന്തം ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ജെറ്റ്ലൈനർ ഡി ഹാവിലാൻഡ് കോമറ്റ് 1952 ൽ പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ ഇപ്പോൾ നോക്കേണ്ടത് ഇതാണ് ജെറ്റ് എയർ വിമാനങ്ങൾ വളരെ സാധാരണമാണ് അതായിരുന്നു ആദ്യത്തെ ജെറ്റ് വിമാനം അതിനാൽ നിരവധി സാങ്കേതികവിദ്യകൾ ആദ്യമായി പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ആ കാഴ്ചപ്പാടിൽ മുഴുവൻ രൂപകൽപ്പനയും ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു ഒരു ജെറ്റ് വിമാനത്തിന്റെ പ്രയോജനം എന്താണ് പ്രൊപ്പല്ലർ അധിഷ്ഠിത വിമാനങ്ങൾക്ക് വിപരീതമായി കോമറ്റ് കാലാവസ്ഥയ്ക്ക് മുകളിലൂടെ പറന്നു സ്ട്രാറ്റോസ്ഫിയറിൽ 8 മൈൽ ഉയരത്തിൽ ശാന്തവും സുഗമവുമായ സവാരി നൽകി ഇതാണ് പ്രധാനം സാധാരണ പ്രൊപ്പല്ലർ വിമാനങ്ങൾ അവ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നു ഈ യാത്ര കൂടുതൽ ശബ്ദമുഖരിതവും കൂടുതൽ ഇളക്കം ഉള്ളതും ആണ് ഇപ്പോൾ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയും ഇത് ശാന്തവും സുഗമവുമായ സവാരി ആണ് കൂടാതെ ക്യാബിൻ പൂർണ്ണമായും സമ്മർദ്ദത്തിലാകുന്നു ഇതൊക്കെ ഒരു ജെറ്റ്ലൈനറിന്റെ നേട്ടമാണ് നമ്മൾ നോക്കിയാൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യ വർഷത്തിൽ കോമറ്റ് മൊത്തം 104 ദശലക്ഷം മൈലുകൾ 28000 യാത്രക്കാരെ വഹിച്ചു അതിനാൽ ഇത് വിജയമായി കണക്കാക്കപ്പെടുന്നു കോമറ്റ് വിമാനത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ച ഇതാണ് എഞ്ചിനുകൾ അല്പം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ഇപ്പോൾ നമ്മൾക്കുള്ളത് പോലെയല്ല ലണ്ടനിലെ റോയൽ എയർഫോഴ്സ് മ്യൂസിയത്തിൽ നിന്നുള്ളതാണ് ഈ ചിത്രം എന്താണ് പ്രശ്നം എന്തുകൊണ്ട് ഇത് പരാജയപ്പെട്ടു

കോമറ്റ്ൽ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ നമ്മൾക്കൊരു ക്രൂ എസ്കേപ്പ് വിൻഡോ ഉണ്ടായിരുന്നു അത് വളരെ വലുതായിരുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതേസമയം ആധുനിക വിമാന വിൻഡോ ഇതുപോലെ ഇടുങ്ങിയതാണ് ഒരു ഓപ്പണിംഗിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ മാറ്റം പോലും പരാജയത്തിന് കാരണമാകുമോ എന്ന് ഒരാൾക്ക് ആശ്ചര്യപ്പെടാം വാസ്തവത്തിൽ ഇവയിൽ ചിലതിന് ഇത് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുണ്ട് അമേരിക്കൻ സിവിൽ എയറോനോട്ടിക്സ് അഡ്മിനിസ്ട്രേഷൻ കോമറ്റ്ന് അമേരിക്കയിൽ പറക്കാൻ ഒരു എയർ യോഗ്യത സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിച്ചു ഒരു വലിയ ഓപ്പണിംഗിനെക്കുറിച്ച് അവർക്ക് സംശയമുണ്ടായിരുന്നു കാരണം നമുക്കൊരു ഓപ്പണിങ് ഉള്ളപ്പോൾ അത് ഒരു സമ്മർദ്ദ കേന്ദ്രീകരണം പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ അവർക്ക് അത് അത്ര സുഖകരമായിരുന്നില്ല അതിനാൽ US ഇൽ വായു യോഗ്യതാ സർട്ടിഫിക്കറ്റ് അവർ നിരസിച്ചു കോമറ്റ് ഇന്ത്യയിൽ പറന്നു അത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പറന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ പരാജയം സംഭവിച്ചു 18 മാസത്തെ പ്രവർത്തനത്തിന് ശേഷം രണ്ട് വിമാനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ അപ്രത്യക്ഷമായി കോമറ്റ് കൊൽക്കത്തയിൽ നിന്ന് പറന്നപ്പോഴും അപകടം ഉണ്ടായിരുന്നു ഇതെല്ലാം നടന്നിട്ടും 1954 ജനുവരി 10 വരെ പൊതുജനവിശ്വാസം നിലനിന്നിരുന്നു അന്ന് സംഭവിച്ചത് റോമിൽ നിന്ന് പുറപ്പെട്ട കോമറ്റ് 26000 അടി ഉയരത്തിൽ നിന്ന് കടലിലേക്ക് വീഴുകയായിരുന്നു അതിനാൽ ആളുകൾ വിചാരിച്ചു അതിന്റെ ഘടനാപരമായ വശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം പറക്കലിൽ നിഗൂഢമായി കാണാതായ വിമാനങ്ങളെ കാരണം വിലയിരുത്തുന്നതിന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ അവർ ചെയ്തത് അവർ സമുദ്രത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി രക്ഷിക്കുകയുംവിമാനം പുനർനിർമ്മിക്കുകയും ചെയ്തു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫ്യൂസ്ലേജ് തന്നെ പരാജയപ്പെട്ടതായി അവർ കണ്ടെത്തി ഇത് സങ്കൽപ്പിക്കപ്പെട്ടിരുന്നില്ല കടലിൽ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തി അവയെല്ലാം ഒരുമിച്ച് ചേർത്തപ്പോൾ ക്യാബിൻ തന്നെ പരാജയപ്പെട്ടുവെന്ന് അവർ കണ്ടെത്തി അതിനാൽ ക്യാബിന്റെ സ്ഫോടനാത്മക ഡികംപ്രഷൻ ആണ് പരാജയം എന്നായിരുന്നു നിഗമനം പ്രവർത്തനം നടത്തുന്ന ആദ്യ ജെറ്റ്ലൈനർ ആയതിനാൽ എഞ്ചിനീയർമാർ സബ്സെംബ്ലികളെയും അസംബ്ലികളെയും മുഴുവൻ വിമാനത്തെയും പരീക്ഷിക്കുന്നതിനായി വിവിധ പരിശോധനകൾ ആവിഷ്കരിച്ചു അതിനാൽ പരിശോധനകളില്ലാതെ വിമാനം പറക്കാൻ അനുവദിച്ചു എന്നല്ല വാസ്തവത്തിൽ എന്തെങ്കിലും പുതിയ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒരു പങ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് സെലിബ്രിറ്റികളാണ് എലിസബത്ത് രാജ്ഞി കോമറ്റ്ൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചില്ല കടലിൽ പതിച്ച കനിഷ്ക വിമാനാപകടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം അത് ഒരു ഭീകരാക്രമണം മൂലമായിരുന്നു വിമാനത്തിൽ ഘടനാപരമായ പരാജയം സംഭവിച്ചതിനാലും അത് പരാജയപ്പെട്ടതിനാലും ആയിരുന്നില്ല അത് അപകടങ്ങൾ സംഭവിക്കുന്നതുവരെ ആളുകൾ കോമറ്റ് കുഴപ്പമില്ലെന്ന് കരുതി ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു അഭിമാനമായിരുന്നു ആളുകൾ നോക്കുന്ന രീതി അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കോമറ്റ് ഏറ്റവും നന്നായി പരീക്ഷിച്ച അക്കാലത്ത് നിർമ്മിച്ച പാസഞ്ചർ വിമാനമായിരുന്നു ഏറ്റവും നന്നായി എന്ന നാമവിശേഷണം കാണുക അത് ആപേക്ഷികമാണ് അക്കാലത്ത് അവർ അത്രയധികം ടെസ്റ്റുകൾ പോലും നടത്തിയിരുന്നില്ല എന്നാൽ കോമറ്റ്ൽ അവർ നടത്തിയ പരീക്ഷണങ്ങൾ വളരെ കൂടുതലായിരുന്നു ഒരു ക്യാബിന്റെ ഡീകംപ്രഷൻ ടെസ്റ്റ് അവർ അനുകരിച്ചു അത് പരീക്ഷണത്തെ നേരിടാൻ കഴിയുമെന്ന് കാണിച്ചു അവർ പരീക്ഷണം നടത്തിയിട്ട് കൂടി പരാജയപ്പെട്ടു അതിനാൽ ടെസ്റ്റുകൾ പര്യാപ്തമാണോ എന്ന് ആളുകൾ തിരിച്ചുപോയി പരിശോധിക്കണം വാസ്തവത്തിൽ യുകെയിലെ കമ്മിറ്റി ഒരു പുതിയ പരീക്ഷണം നടത്താൻ അവർ നിർദ്ദേശിച്ചു എന്താണ് പുതിയ പരീക്ഷണം സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരു പുതിയ പരീക്ഷണത്തിന് തീരുമാനിച്ചു ഇത് ഡികംപ്രഷനു പുറമേ എയർഫ്രെയിം ചിറകുകൾ എന്നിവ ഫ്ലക്സ്സിങ് പോലുള്ള ചലനത്തിന്റെ ഫലങ്ങളെ അനുകരിച്ചു നമുക്ക് ടെസ്റ്റ് റിഗ് കാണാം അത് വളരെ വലുതാണ് അവർ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ചിരുന്നു മുഴുവൻ വിമാനവും വെള്ളത്തിൽ മുക്കി നമുക്ക് ഇതിൽ നിന്ന് ചിറകുകൾ നീണ്ടുനിൽക്കുകയും അവ വളയുകയും ചെയ്തു ഫ്ലൈറ്റിൽ വായുപ്രവാഹം കാരണം ചിറകുകൾക്ക് വഴങ്ങാൻ കഴിയും എന്നതിനാലാണ് ഈ ഫ്ലെക്സിംഗ് നടത്തിയത് ഇത് വളരെ ചെലവേറിയ പരീക്ഷണമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ടാങ്കിന്റെ വശങ്ങളിലെ വെള്ളം ഇറുകിയ സ്ലോട്ടുകളിൽ നിന്ന് ചിറകുകൾ നീണ്ടു നിന്നു ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് അവ മുകളിലേക്കും താഴേക്കും നീക്കി അതിനാൽ ഇത് ഒരു അനുകരണ ഫാറ്റിഗ് പരിശോധന പോലെയാണ് ഒരു ത്വരിതപ്പെടുത്തിയ പരീക്ഷണവും പോലെയാണ് അവർ ഒരു യഥാർത്ഥ ആശ്ചര്യ വസ്തുത കണ്ടെത്തി എന്താണ് ആശ്ചര്യം എന്ന് നമുക്ക് നോക്കാം

അതിനാൽ സംഭവിച്ചത് 9000 മണിക്കൂർ തുല്യമായ പറക്കലിനുശേഷം മർദ്ദം കുറയുകയും ഫ്യൂസ്ലേജിൽ ഒരു വിഭജനം കണ്ടെത്തുകയും ചെയ്തു ഇത് എവിടെയാണ് സംഭവിച്ചത് എസ്കേപ്പ് വിൻഡോയ്ക്ക് സമീപമാണ് ഇത് സംഭവിച്ചത് യുഎസ് ഭരണകൂടം അതിന് വലിപ്പം കൂടുതലാണ് എന്ന കാരണത്താൽ പറക്കാൻ അനുവദിച്ചില്ല ഇതിൽ നിന്നാണു നമുക്ക് വിള്ളൽ പ്രചരിച്ചത് അതിനാൽ നമുക്ക് ഫ്യൂസ്ലേജിൽ ഒരു ഓപ്പണിംഗ് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡീകംപ്രഷൻ നടക്കുന്നു അത് ഒരു ചെറിയ വിള്ളൽ മാത്രമായിരുന്നു ഒരു എസ്കേപ്പ് ലാച്ച് വിൻഡോയുടെ കോണിലുള്ള ഒരു ചെറിയ വിള്ളൽ പരാജയത്തിന് കാരണമായി അതിനാൽ എനിക്ക് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായപ്പോൾ യഥാർത്ഥ കാഴ്ചപ്പാടിൽ അത് ഒരു വിള്ളലും വിൻഡോയുടെ നീളവും ആയി പ്രവർത്തിച്ചു എനിക്ക് ഒരു വിള്ളൽ ഒരു കോണിൽ ഉണ്ടെങ്കിൽ വിള്ളൽ കുറച്ച് മില്ലിമീറ്ററായിരിക്കാം പക്ഷേ മൊത്തം വിള്ളൽ ഘടനാപരമായി പെരുമാറുന്ന രീതി കുറച്ച് മില്ലിമീറ്ററും ഈ ഡയഗോണലിന്റെ നീളവും ആയിരിക്കും ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് പുതിയ രൂപകൽപ്പനയ്ക്കായി നമ്മൾ ശരിക്കും പോകുമ്പോൾ നമുക്ക് ആശ്ചര്യങ്ങൾ ഉണ്ടാകും വാസ്തവത്തിൽ ഈ പരാജയം കാരണം കമ്പനി പാപ്പരായി കൂടാതെ ഗുണഭോക്താവ് ബോയിംഗ് ആയിരുന്നു ബോയിംഗും അവരുടെ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നുവെന്ന് നമ്മൾക്കറിയാം അവർ കോമറ്റ് ദുരന്തത്തിൽ നിന്നുള്ള എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ട് ബോയിംഗിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി ബോയിംഗ് ഒരു വിജയകരമായ വിമാനമായി മാറി അതിനാൽ നമ്മൾ നോക്കേണ്ടത് ഇതാണ് ചതുര വിൻഡോകൾ കൂടാതെ പുതിയ വിമാനത്തിന്റെ രൂപകൽപ്പന ഘട്ടത്തിലായിരിക്കുമ്പോൾ അത് പരീക്ഷിക്കുന്നത് അപര്യാപ്തമായിരുന്നു അതിനാൽ സാധ്യമായ നിഗമനങ്ങളിൽ ഒന്നായിരിക്കാം ഇത് കാരണം അവർ മതിയായ എണ്ണം ടെസ്റ്റുകൾ നടത്തിയെന്ന് അവർ കരുതിയിരുന്നു പക്ഷേ ടെസ്റ്റുകൾ പര്യാപ്തമല്ല യഥാർത്ഥ പ്രവർത്തന അവസ്ഥ ലോഡുകൾ അനുകരിക്കുക എന്നത് ലളിതമായ ഒരു ജോലിയല്ല കാരണം പ്രവർത്തന ലോഡുകൾ എന്താണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ചിറകുകളുടെ വളവ് അവർ അവഗണിച്ചിരുന്നു അത് സംയോജിപ്പിക്കുമ്പോൾ അവർ കോമറ്റ് നിർമ്മിച്ച ഘടന പൂർണ്ണമായും ശരിയായ ഒരു രൂപകൽപ്പനയല്ലെന്ന് ഒരു വിശദീകരണം നൽകി ഒരു ഡിസൈൻ തകരാറുണ്ടായിരുന്നു കോമറ്റ്ന് ഘടനാപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു വാസ്തവത്തിൽ ഫാറ്റിഗ് വികസനത്തെക്കുറിച്ചുള്ള ആദ്യകാല ചരിത്രങ്ങളിൽ ചിലത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി ചക്രങ്ങൾക്ക് ശേഷം ഘടനകൾ പരാജയപ്പെടും എന്ന് ചിന്തിച്ചിരുന്ന സമയമായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രം കടക്കുക എന്നത് ഒരു വലിയ ജോലിയായിരുന്നു ഇത് ലളിതമായ ഒരു ജോലിയല്ല ഇപ്പോൾ മിക്ക വ്യക്തികളും ലോകമെമ്പാടും സഞ്ചരിക്കുന്നു ആളുകൾ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കരുതുന്നില്ല വ്യോമയാനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അറ്റ്ലാന്റിക് കടക്കുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അതിനുവേണ്ടി ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു അവർ കണക്കുകൂട്ടുകയായിരുന്നു നമ്മൾ അറ്റ്ലാന്റിക് കടക്കുമ്പോൾ വിമാനം പരാജയപ്പെടും കാരണം ആ ഘടനയുടെ ഫാറ്റിഗ് ആയുസ്സ് അത്തരത്തിലായിരുന്നു അറ്റ്ലാന്റിക് കടക്കുമ്പോൾ അതിന് അത്ര ചക്രങ്ങൾ മാത്രമേ നേരിടാൻ കഴിയൂ വാസ്തവത്തിൽ അത്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് അപകടങ്ങളിലൂടെ മാത്രമാണ് ഡിസൈനിൽ മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത് അലോഹ വിമാന പരാജയം ഇപ്പോൾ നമ്മൾ വളരെ പ്രസിദ്ധമായ മറ്റൊരു അപകടത്തിലേക്ക് നീങ്ങുന്നു ഇതാണ് അലോഹ എയർലൈൻസ് ബോയിംഗ് ഫ്യൂസ്ലേജ് പരാജയം ഈ അപകടം അല്പം വ്യത്യസ്തമാണ് മറ്റ് മൂന്ന് കേസുകളിലും അപകടങ്ങൾ പ്രവർത്തനത്തിന്റെ ആരംഭ സമയങ്ങളിൽ തന്നെ സംഭവിച്ചുവെന്ന് നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഘടന നിർമ്മിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ 19 വർഷത്തിനുശേഷം ഇത് സംഭവിച്ചു യഥാർത്ഥ ഡിസൈൻ ആയുസ്സ് 20 വർഷമായിരുന്നു നമുക്ക് ഇതിനെ മാറ്റി നിർത്താമായിരുന്നു കൊള്ളാം ഇത് 19 വർഷമായി പരാജയത്തെക്കുറിച്ച് ഞാൻ എന്തിന് വിഷമിക്കുന്നു പരാജയം വിവിധ കാരണങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു നമ്മൾ ഉയർന്ന ഉയരത്തിൽ പറക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക പെട്ടെന്ന് മേൽക്കൂരയുടെ ഒരു ഭാഗം പറന്നുപോകുന്നു നമ്മൾ മേൽക്കൂരയില്ല ഇത് സംഭവിച്ചു ഭാഗ്യവശാൽ പൈലറ്റ് പരിചയസമ്പന്നനായതിനാൽ അദ്ദേഹം സുരക്ഷിതമായി വിമാനം ഇറക്കി ഒരു അപകടം മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല വിമാനത്തിൽ പറന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം ഫ്ലൈറ്റ് ബെൽറ്റ് ചിഹ്നം സ്വിച്ച് ഓഫ് ചെയ്തതായി അറിയിപ്പുകൾ ഉണ്ടാകും എന്നാൽ അത്യാഹിതങ്ങൾക്കായി ബെൽറ്റ് നിങ്ങളുടെ മേൽ സൂക്ഷിക്കാൻ ശുപാർശ ചെയ്യുന്നു പതിവ് ഫ്ലൈയർമാർ എല്ലാം സുരക്ഷിതമാണെന്ന് കരുതി അവർ ബെൽറ്റ് ഇടുകയില്ല വാസ്തവത്തിൽ അലോഹ എയർലൈൻ പരാജയം നോക്കുകയാണെങ്കിൽ ആളുകളെ സീറ്റുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അവരെല്ലാം രക്ഷപ്പെട്ടു കാരണം ഒരിക്കൽ ഒരു സ്ഫോടനാത്മക ഡികംപ്രഷൻ ഉണ്ടായാൽ ആളുകൾ പുറത്താക്കപ്പെടും നിന്നിരുന്ന പരിചാരകൻ മാത്രമാണ് പുറത്തു പോയത് ഒരു അപകടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ബെൽറ്റുകൾ ഇടുന്നത് എല്ലായ്പ്പോഴും വിവേകപൂർണ്ണമാണ് അതിനെക്കുറിച്ച് ഒരു അറിയിപ്പും ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എഞ്ചിനീയറിംഗ് എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് കാണുക ആളുകൾ അത് എടുക്കുന്നില്ല ഞാൻ 20 വർഷത്തേക്ക് ഇത് രൂപകൽപ്പന ചെയ്തപ്പോൾ 19 വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് ഇത് പരാജയപ്പെട്ടു അവർ അതിനെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വ്യാപകമായ ദ്രവിക്കൽ ആണ് പ്രധാന പ്രശ്നം എന്ന് അവർ കണ്ടെത്തി വാസ്തവത്തിൽ ആ ഫ്ലൈറ്റിന് മുമ്പുതന്നെ ഒരു യാത്രക്കാരൻ മേൽക്കൂരയുടെ ചില ഭാഗത്ത് ഒരു രേഖാംശ ഫ്യൂസ്ലേജ് വിള്ളൽ ശ്രദ്ധിച്ചിരുന്നതായി അറിഞ്ഞു എന്നിരുന്നാലും ഇത് ഫ്ലൈറ്റ് ക്രൂവിനെയോ ഗ്രൌണ്ട് സ്റ്റാഫിനെയോ അറിയിച്ചില്ല അതിനാൽ ഒരു പ്രത്യേക ഭാഗത്ത് നേർത്ത ഭാഗം പരാജയപ്പെട്ടതിന്റെ ചില തെളിവുകൾ ആളുകൾ കണ്ടെത്തി യാത്രക്കാരൻ ഒരു വിള്ളൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തില്ല നമുക്ക് ഒന്നും അറിയില്ല എന്ന് ഓർത്തു ഭയപ്പെടും യാത്രക്കാർ എഞ്ചിനീയർ ആയിരിക്കില്ല അദ്ദേഹം ഒരു സാധാരണ യാത്രക്കാരനായിരിക്കാം വിള്ളലിന്റെ പങ്ക് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നില്ല എന്നാൽ ഈ അപകടം വ്യോമയാന ചരിത്രത്തെ മാറ്റിമറിച്ചു ജെറ്റ് യുഗത്തിന്റെ തുടക്കത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഇത് ദ്രവിക്കലിനും അതിൻറെ നിയന്ത്രണത്തിനും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല അതിനാൽ രൂപകൽപ്പന ഘട്ടത്തിൽ ദ്രവിക്കൽ നിയന്ത്രണം ഒരുപോലെ പ്രധാനമാണെന്ന് ആളുകൾ മനസ്സിലാക്കി നമ്മൾ ഒരു വിമാനം നോക്കുകയാണെങ്കിൽ അത് കടലാണെങ്കിലും പറക്കുന്നു കൂടാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നമുക്ക് മഞ്ഞ് മൂടി കിടക്കുന്നു ദ്രവിക്കൽ പരിസ്ഥിതിയെ വേഗത്തിൽ ആക്കുന്നതാണ് ഇതെല്ലാം ഈ വെള്ളമെല്ലാം കളയാൻ നമ്മൾ അനുവദിക്കുകയും വെള്ളം കെട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ശ്രദ്ധാപൂർവ്വം നോക്കുകയും രൂപകൽപ്പനയിൽ നമ്മൾ അത്തരം പരിഷ്കാരങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ദ്രവിക്കൽ ഒരു പ്രശ്നമാകും അതിനാൽ വ്യോമയാന ആളുകൾ ഇത് മനസ്സിലാക്കി ബോയിംഗ് 777 ന്റെ കാര്യത്തിലും 737 ന്റെ പിന്നീടുള്ള പതിപ്പുകളിലും ദ്രവിക്കലിനെ തടയുന്നതിലും ഡിസൈൻ നിയന്ത്രണത്തിലും നിർമ്മാണത്തിലും കാര്യമായ പുരോഗതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്

പ്രശസ്തമായ പരാജയങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ കഴിഞ്ഞ 70 വർഷത്തിനിടയിലോ 70 വർഷത്തിലോ നമ്മൾ നിരവധി പരാജയങ്ങൾ കണ്ടു ഈ പരാജയങ്ങളിൽ ഓരോന്നിന്റെയും പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക പുരോഗതിയോ കാരണമോ തിരിച്ചറിയുന്നതിനാണ് ഈ പരാജയങ്ങളിൽ ഓരോന്നും തിരഞ്ഞെടുത്തത് ബോസ്റ്റൺ മോളസസ് ടാങ്ക് പരാജയപ്പെടലിൽ ഘടനാപരമായ സ്ഥിതി നിരീക്ഷണത്തിന്റെ പ്രാധാന്യം ഇത് വെളിപ്പെടുത്തി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ സൈക്കിൾ ഉപയോഗിച്ചിരിക്കണം നിങ്ങൾക്ക് പ്രതിരോധ അറ്റകുറ്റപ്പണികളുടെ ഒരു ശീലമുണ്ടോ എനിക്കറിയില്ല ഒരു തുള്ളി എണ്ണ ഇടുക നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആളുകൾ വളരെ മടിയന്മാരായി സൈക്കിൾ തുരുമ്പ് എടുക്കാൻ അനുവദിക്കുകയും പരിപാലിക്കുന്നതിനേക്കാൾ പുതിയ സൈക്കിൾ വാങ്ങാനും നമ്മൾ ശ്രമിക്കുന്നു ഘടനാപരമായ സ്ഥിതി നിരീക്ഷണത്തിൽ ആദ്യത്തെ തത്വം നമ്മൾ പ്രതിരോധ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് ഘടന ശരിയാണോ അല്ലയോ ഘടനാപരമായ സ്ഥിതി നിരീക്ഷണത്തിന്റെ പ്രാധാന്യം എന്തുകൊണ്ട് വന്നു നമ്മൾക്കത് പരിശോധിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പോലും ഒരു സാധ്യതയുമില്ല എന്താണ് സംഭവിച്ചത് ടാങ്കിന്റെ ഉടമ അത് തവിട്ട് പെയിന്റ് ചെയ്തു മോളാസസും തവിട്ട് നിറത്തിലാണ് അതിനാൽ ഒരു ചോർച്ചയുണ്ടെങ്കിൽപ്പോലും വിഷ്വൽ പരിശോധനയിലൂടെ അത് വേഗത്തിൽ കാണാൻ കഴിയില്ല മെറ്റീരിയൽ സ്വഭാവത്തിൽ താപനിലയുടെ സ്വാധീനത്തിന്റെ പ്രാധാന്യം ലിബർട്ടി കപ്പൽ പരാജയം വെളിപ്പെടുത്തി ഇത് വളരെ പ്രധാനമാണ് വാസ്തവത്തിൽ ബോസ്റ്റൺ മോളസസ് ടാങ്ക് പരാജയം ഒരു ടാങ്ക് മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ ലിബർട്ടി കപ്പൽ പരാജയത്തിൽ ആയിരക്കണക്കിന് കപ്പലുകൾക്ക് വലിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അവയിൽ ചിലത് രണ്ടായി തകർന്നു അതിനാൽ തീർച്ചയായും രൂപകൽപ്പന ചെയ്ത് കെട്ടിച്ചമച്ച എഞ്ചിനീയർമാരെ ചോദ്യം ചെയ്യും എന്തുകൊണ്ടാണ് ഇത്രയധികം പരാജയങ്ങൾ സംഭവിച്ചത് കുറഞ്ഞ താപനില ഒരു വസ്തുവിനെ ബ്രിട്ടിൽ രീതിയിൽ പെരുമാറാൻ കാരണമാകുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വശം ഇത് കൊണ്ടുവന്നു കോമറ്റ് ദുരന്തം അത് ഉയർത്തിക്കാട്ടി സ്ട്രെസ് കോൺസൺട്രേഷൻ സോണുകളിൽ വിള്ളലുകൾ വികസിക്കുകയും ഫാറ്റിഗ് കാരണം പ്രവർത്തനത്തിൽ വളരുകയും ചെയ്യും അവർ നടത്തിയ പരിശോധനയുടെ എണ്ണം പര്യാപ്തമല്ലെന്നും അവ മതിയെന്നു നിഗമനത്തിൽ പറക്കാൻ അനുവദിച്ചതായും നമ്മൾ കണ്ടു അതിനാൽ പരിശോധനയ്ക്കിടെ പ്രവർത്തന ലോഡുകളുടെ ശരിയായ സിമുലേഷൻ നമ്മൾ എല്ലായ്പ്പോഴും നോക്കേണ്ടതുണ്ട് ഏത് വെല്ലുവിളി നിറഞ്ഞ ഡിസൈൻ സാഹചര്യങ്ങളിലും ഇത് വളരെ പ്രധാനമാണ് അതിനാൽ അലോഹ എയർലൈൻ ബോയിംഗ് ഫ്യൂസ്ലേജ് പരാജയത്തിന്റെ കാര്യത്തിൽ ഇത് സ്ട്രെസ് കോറോസന്റെ പ്രാധാന്യം വെളിപ്പെടുത്തി അതിനാൽ സ്ട്രെസ് കോറോസൻ ഒരു കാരണമാകാമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യോമയാന വ്യവസായം ദ്രവിക്കൽ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ട മെച്ചപ്പെടുത്തലുകൾ രൂപകൽപ്പനയിൽ നടത്തി ഇത് വളരെ പ്രധാനമാണ് ഈ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പഠനം എന്താണ് എന്ന് നമുക്ക് സംഗ്രഹിക്കാം ഇതിലെല്ലാം ചില സാദൃശ്യങ്ങൾ ഉണ്ട് ഈ പരാജയങ്ങളിലെല്ലാം ഘടന വലിയ മുന്നറിയിപ്പില്ലാതെ വേർപെട്ടു പ്ലാസ്റ്റിക് രൂപഭേദം അല്ലെങ്കിൽ വലിയ വ്യതിചലനം പോലുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ എന്ന് നോക്കുക ലോഡ് കുറച്ചുകൊണ്ട് ആളുകൾ സാഹചര്യം ചെറുതാക്കാൻ ശ്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ചെയ്യുമായിരുന്നുപക്ഷേ ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല അതിനാൽ അതുവരെ ഭൌതിക സ്വഭാവത്തെക്കുറിച്ചുള്ള ധാരണ പരിമിതമായിരുന്നു എന്നാണ് ഇതിനർത്ഥം അവർക്ക് കുറച്ച് ധാരണയുണ്ടായിരുന്നു പക്ഷേ അവർ അവരുടെ രൂപകൽപ്പന അതിന്റെ പരിധിയിലേക്ക് നീട്ടിയപ്പോൾ അത് പരാജയപ്പെടുകയായിരുന്നു മറ്റ് പ്രധാന നിരീക്ഷണം ഇതാണ് ദൃശ്യമായ പ്ലാസ്റ്റിക് രൂപഭേദം ഉണ്ടായിരുന്നില്ല പ്രാദേശികവൽക്കരിച്ച പ്ലാസ്റ്റിക് രൂപഭേദം നമുക്ക് പിന്നീട് കാണുമെങ്കിലും മൊത്തത്തിൽ ഘടനയ്ക്ക് ദൃശ്യമായ പ്ലാസ്റ്റിക് രൂപഭേദം ഇല്ലായിരുന്നു ലിബർട്ടി കപ്പൽ ഒരിക്കലും ഗ്ലാസിൽ നിന്ന് ഉണ്ടാക്കിയതല്ലെന്ന് നമ്മൾക്കറിയാം അവയെല്ലാം ഡക്റ്റൈൽ മെറ്റീരിയലുകളാൽ നിർമ്മിച്ചവയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇതാണ് ഡക്റ്റൈൽ മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച ഘടനകൾ ബ്രിട്ടിൽ രീതിയിൽ പരാജയപ്പെട്ടു മുന്നറിയിപ്പില്ലാതെ പരാജയപ്പെടുന്ന ബ്രിട്ടിൽ മെറ്റീരിയൽ മാത്രമാണ് ഇത് ഡക്റ്റൈൽ മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച ഘടനകൾക്കും സമാനമായ ഒരു സാഹചര്യം സംഭവിച്ചു ബ്രിട്ടിൽ പരാജയത്തിന് കാരണമായ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നായി കാണും അവയിൽ ചിലത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവയിൽ ചിലത് നാം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കും മെറ്റീരിയലിലെ അന്തർലീനമായ പിഴവ് കാരണം സമ്മർദ്ദത്തിന്റെ ഒരു ട്രയാക്സിയൽ അവസ്ഥയുടെ സാന്നിധ്യമാണ് ആദ്യ പോയിന്റ് നമ്മൾ എല്ലാവരും സ്ട്രെസ് കോൺസെൻട്രേഷൻ പ്രശ്നം പരിശോധിച്ചു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഫസ്റ്റ് ലെവൽ കോഴ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ജോമട്രി ഡിസ്കണ്ടിന്യൂയിറ്റി ഉണ്ടാകുമ്പോൾ അതിനടുത്തായി സമ്മർദ്ദങ്ങൾ ഉയർന്നതായിരിക്കും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതാണ് ഒരു ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ കാര്യം നമ്മൾ എടുക്കുന്നുവെന്ന് കരുതുക ദ്വാരത്തിന്റെ അതിർത്തിക്ക് സമീപം നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ട് നമ്മൾ രണ്ട് സാഹചര്യങ്ങൾ എടുക്കുന്നുവെന്ന് കരുതുക ദ്വാരമില്ലാത്ത ഒരു പ്ലേറ്റ് ദ്വാരമുള്ള മറ്റൊരു പ്ലേറ്റ് ദ്വാരമില്ലാത്ത ഒരു പ്ലേറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഏകീകൃത ടെൻഷൻ പ്രയോഗിക്കുമ്പോൾ എനിക്ക് ഏകീകൃത സ്ട്രെസ് ഫീൽഡ് മാത്രമേ ഉണ്ടാകൂ ഞാൻ ഒരു ദ്വാരം ഇടുന്ന നിമിഷം എനിക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ട് ദ്വാരത്തിന് സമീപം സ്ട്രെസ് ഫീൽഡ് ബൈ ആസ്കിയൽ ആയി മാറുന്നു അതിനാൽ നമുക്ക് ഏകീകൃതമായി ബാഹ്യമായി പ്രയോഗിച്ച ലോഡ് ഉണ്ട് പക്ഷേ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷനു സമീപം സ്ട്രെസ് ഫീൽഡ് ബൈ ആസ്കിയൽ ആണ് എനിക്ക് ഒരു വിള്ളൽ ഉണ്ടെന്ന് കരുതുക മാതൃകയുടെ കനം കൂടി പ്രാബല്യത്തിൽ വരും കൂടാതെ നമുക്ക് ട്രയാക്സിയൽ സ്ട്രെസ് അവസ്ഥയും ഉണ്ടാകും അത് ഫ്രാക്ചർ മെക്കാനിക്സ് വികസനത്തിൽ നമ്മൾ കാണും അതിനാൽ നിരീക്ഷണം ഇതാണ് സ്ട്രെസ്ന്റെ ഒരു ട്രയാക്സിയൽ അവസ്ഥയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ലിബർട്ടി പരാജയത്തിന്റെ കാര്യത്തിൽ കുറഞ്ഞ താപനിലയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി അലോഹയുടെ കാര്യത്തിൽ ദ്രവിക്കലിനെത്തുടർന്ന് ഏജിങ് ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് നമുക്ക് അന്തർലീനമായ കുറവുകൾ ഉണ്ടായിരുന്നു ഫാറ്റിഗ് ലോഡിംഗ് കാരണം ഈ വിള്ളലുകൾ ഗുരുതരമായ തലത്തിലേക്ക് വളരുന്നു ഡീകംപ്രഷൻ അല്ലെങ്കിൽ തെർമൽ ഷോക്ക് പോലുള്ള ലോഡിംഗിന്റെ ദ്രുത നിരക്ക് മറ്റൊരു വശമാണ് ചില പ്രശസ്തമായ പരാജയങ്ങളിൽ നിന്ന് പോയി പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ വ്യക്തമായതും ഈ പരാജയങ്ങൾക്കിടയിൽ കൂടുതലോ കുറവോ ആയി സമാനതകൾ ഉണ്ടായിരുന്ന സവിശേഷതകൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ഫ്രാക്ചർ ശാപമോ അനുഗ്രഹമോ ഇപ്പോൾ ചോദ്യം ഇതാണ് ഒരു ഘടനയുടെ പ്രവർത്തനത്തിലെ ഫ്രാക്ചർ ഒഴിവാക്കണമോ അതോ തടയണമോ എന്നതിനെപ്പറ്റിയാണു നമ്മൾ സംസാരിക്കുന്നത് എല്ലാവിധത്തിലും ഫ്രാക്ചർ ഒഴിവാക്കണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു അത് ഒരിക്കലും അങ്ങനെയല്ല അതിനാൽ നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചപ്പോൾ ബ്രേക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിക്ഷൻ ആവശ്യമാണ് എഞ്ചിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഫ്രിക്ഷൻ ആവശ്യമില്ല അതിനാൽ ഫ്രിക്ഷൻ ആവശ്യമാണ് ഒപ്പം ആവശ്യമില്ല അതുപോലെ ഫ്രാക്ചർ ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് പല ഘടനയിലും ഫ്രാക്ചർ ആവശ്യമില്ല

അതിനാൽ ഇത് എല്ലായ്പ്പോഴും ദ്വൈതതയിലാണ് വരുന്നത് സന്ദർഭം അനുസരിച്ച് നമ്മൾ കണ്ടെത്തുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ ഉപയോഗപ്രദമായ പല വശങ്ങളും ഫ്രാക്ചർനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിനാൽ ഇത് ഒരു ശാപമല്ല വളരെ ലളിതമായ ദൈനംദിന ജീവിതം ഫ്രാക്ചർനെ ആശ്രയിച്ചിരിക്കുന്നുത് നമുക്ക് ചിന്തിക്കാമോ നമ്മൾ പ്രയോഗിക്കാത്തതിനാൽ നമ്മൾ പലതും നിസ്സാരമായി കാണുന്നു നമ്മൾ ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് എല്ലാത്തിനും ഒരു കാരണം കണ്ടെത്തേണ്ടതുണ്ട് ധാന്യങ്ങൾ പൊടിക്കുന്നത് പോലുള്ള ലളിതമായ കാര്യം നമുക്ക് പോയി ചപ്പാത്തി കഴിക്കണമെങ്കിൽ ഗോതമ്പ് മാവ് വേണം നമുക്ക് എങ്ങനെ ഗോതമ്പ് മാവ് ലഭിക്കും ധാന്യം ഇടിച്ച് നമ്മൾ അതിനെ ഒരു പൊടിയായി മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ചപ്പാത്തിയുടെ ദൈനംദിന ഡോസ് ലഭിക്കാൻ പോകുന്നില്ല അത്രയും ലളിതമായ ഒരു ദൈനംദിന പ്രവർത്തനത്തിന് ഫ്രാക്ചർ ആവശ്യമാണ് ഇത് മാത്രമല്ല നമ്മൾ ഔഷധ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ നേർത്ത പൊടികൾ ആകുകയാണെങ്കിൽമരുന്നിന് മെച്ചപ്പെട്ട ആഗിരണം ഉണ്ടെന്ന് അവർ കണ്ടെത്തി നിങ്ങളിൽ എത്രപേർക്ക് അറിവുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ഒരു ഗുളികയും കാപ്സ്യൂളും എടുക്കുന്നു ഇത് നിങ്ങളുടെ നാവിൽ സ്പർശിച്ചാൽ അത് മധുരമായിരിക്കും അത് അത്തരമൊരു ഉദ്ദേശ്യത്തെ സഹായിക്കുന്നു നമ്മൾ കാപ്സ്യൂൾ തുറന്നാൽ ഉള്ളിൽ വളരെ നല്ല പൊടി കാണാം പൊടി പൊതുവേ കയ്പേറിയേക്കാം ഇത് ഒരു കാപ്സ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് വിഴുങ്ങാൻ കഴിയില്ല പക്ഷേ ഒരു ഗുളികയിൽ നമുക്ക് പൊടി ഉണ്ട് അതിനാൽ ഈ പൊടികൾക്കെല്ലാം നമുക്ക് ഫ്രാക്ചർ ആവശ്യമാണ് അതിനാൽ ഫ്രാക്ചർ പ്രധാനമാണ് ഇത് മാത്രമല്ല നമ്മൾ പർവതങ്ങളിൽ റോഡുകൾ ഇടുകയോ തുരങ്കങ്ങൾ കുഴിക്കുകയോ ചെയ്യണം എന്നുണ്ടെങ്കിലോ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ഉണ്ടെങ്കിലോ ഫ്രാക്ചർനെപ്പറ്റി ശരിയായ ഒരു അറിവ് ആവശ്യമാണ് ഇത് മെറ്റീരിയലുകൾ ഫലപ്രദമായി നീക്കംചെയ്യുന്നതിന് ആവശ്യമാണ് വാസ്തവത്തിൽ ഡിസ്കവറി ചാനലിൽ പൊളിച്ചു മാറ്റിയ ഉൽപ്പന്നങ്ങൾ ആ കെട്ടിടത്തിനു പരിധിവിട്ട് ദൂരേയ്ക്കു പോവാതെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ അവർ എങ്ങനെയാണ് കണക്കാക്കിയ രീതിയിൽ ഡിറ്റണേറ്ററുകൾ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കുന്നു കാരണം ഇതെല്ലാം സമീപത്തു മറ്റ് നിരവധി കെട്ടിടങ്ങളുള്ള ഒരു പൊതു പ്രദേശത്താണ് നമുക്ക് ഒരു കെട്ടിടം പൊളിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എത്ര ഡിറ്റണേറ്റർ ഏത് ശ്രേണിയിലാണ് നമ്മൾ വെടിയുതിർക്കേണ്ടത് അതിന്റെ ശക്തി എന്തായിരിക്കണം ഇവയ്ക്കെല്ലാം ഫ്രാക്ചർനെക്കുറിച്ച് ഒരു ധാരണ ആവശ്യമാണ് അതിനാൽ ഫ്രാക്ചർ ഒരു ശാപമല്ല ഫ്രാക്ചർ അല്ലെങ്കിൽ ഫ്രാക്ചർ പ്രതിരോധത്തിൻറെ സാധാരണ ഉപയോഗങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇത് ആവശ്യമാണ് ചില സാഹചര്യങ്ങളിൽ ഇത് തടയണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നോക്കുകയും അന്വേഷിക്കുകയും ചെയ്താൽ ഫ്രാക്ചർനെക്കുറിച്ചുള്ള അറിവ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ പ്രയോഗിക്കുന്നു അവയിൽ ചിലത് നമ്മൾ കാണും ആരെങ്കിലും നമുക്ക് ഒരു കടലാസ് തരുന്നു നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോയി പേപ്പർ എടുത്ത് ഇതുപോലെ വലിക്കില്ല നമ്മൾ ഇത് ഇതുപോലെ വലിക്കുകയാണെങ്കിൽ പേപ്പർ കീറുന്ന വിധത്തിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല നമ്മൾ അത് എടുത്ത് ഒരു മടങ്ങ് ഇടുക എന്നിട്ട് കീറുക ടിയറിങ് പ്രക്രിയയിലൂടെ പേപ്പർ ഭംഗിയായി വേർപെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾക്കത് അനുഭവത്തിലൂടെ ലഭിച്ചു ഫ്രാക്ഷൻ മെക്കാനിക്സ് സിദ്ധാന്തം നമ്മൾ അതുമായി ബന്ധിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഫ്രാക്ഷൻ മെക്കാനിക്സ് പഠിച്ച ശേഷം നമുക്ക് പറയാം അത് മൂന്നാമത്തെ മോഡിലാണ് ടിയറിങ് പ്രക്രിയ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോയാൽ അവർക്ക് വളരെ കട്ടിയുള്ള ബാർ ഉണ്ടെന്ന് നമുക്കറിയാം അവ രണ്ടായി വേർതിരിക്കേണ്ടതുണ്ടെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നത് ഇതാണ് അവർ ഒരു വശത്ത് ഒരു വിള്ളൽ ഇടുകയും സിംപ്ലി സപ്പോർട്ടിംഗ് ബീം ആയി വെക്കുകയും ചെയ്യും അവർ അതിനെ അടിക്കുന്നു അവർ ഇത് മുകളിൽ നിന്ന് താഴേക്ക് മുറിക്കുകയില്ല അതിന് കൂടുതൽ സമയമെടുക്കും അതേസമയം ഒരു വിള്ളൽ ഇട്ടു മറുവശത്ത് നിന്ന് അടിക്കുക അത് നന്നായി വേർതിരിക്കും അതിനാൽ ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലായിരിക്കാം കാരണം ആളുകൾ പരീക്ഷണങ്ങൾക്ക് സമീപം വരാൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ എല്ലായ്പ്പോഴും കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ ഇരിക്കാനും സിമുലേഷൻ ചെയ്യാനും നല്ല നിറങ്ങൾ കാണാനും അതിൽ സന്തുഷ്ടരാകാനും ആഗ്രഹിക്കുന്നു നമ്മൾ വർക്ക്ഷോപ്പിന് ചുറ്റും നടക്കുകയും അവർ ഏതുതരം രീതികളാണ് ചെയ്യുന്നതെന്ന് കാണുകയും വേണം നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് ഇതാണ് ബാർ മുകളിൽ തട്ടി വിള്ളൽ പ്രചരിപ്പിക്കുകയും ഒടുവിൽ ബാർ കഷണങ്ങളായി വേർതിരിക്കുകയും ചെയ്യുന്നു ഫ്രാക്ചർനെക്കുറിച്ചുള്ള അറിവ്നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു കേവലം അനുഭവത്തിലൂടെ ഫ്രാക്ചർ അറിവിന്റെ ഉപയോഗത്തെ നമ്മൾ പ്രയോഗിക്കുന്നു നിരവധി എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിൽ നിരവധി സ്ട്രോണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കേബിളുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് നമുക്ക് നിരവധി സ്ട്രോണ്ടുകൾ ഉപയോഗിച്ച് കേബിളുകൾ ഉള്ളത് ഇത് ഫ്രാക്ചർ തടയുന്നതിനാണ് ഭൌതിക തകരാറുമൂലം ഒരു സ്ട്രോണ്ട് പരാജയപ്പെടുകയാണെങ്കിൽ വിള്ളൽ പ്രചരിപ്പിക്കുന്നില്ല പക്ഷേ അറസ്റ്റുചെയ്യപ്പെടും നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിൻറെ ഒരു വശം നമുക്ക് ഒന്നിലധികം സ്ട്രോണ്ടുകൾ ഉള്ളപ്പോൾ കേബിൾ വഴക്കമുള്ളതാക്കുന്നു അത് അത്തരമൊരു ഉദ്ദേശ്യത്തെ സഹായിക്കുന്നു മറ്റൊരു ഉദ്ദേശ്യം അബദ്ധത്തിൽ ഒരു സ്ട്രാന്റ് പരാജയപ്പെടുകയാണെങ്കിൽപ്പോലും മറ്റൊരു വിള്ളൽ ആരംഭിക്കുന്നതിന് കുറച്ച് സമയം വൈകും ഇതാണ് ലിബർട്ടി പരാജയത്തിന്റെ പ്രശ്നം കപ്പൽ പൂർണ്ണമായും വെൽഡിംഗ് ഉപയോഗിച്ച് നിർമ്മിച്ചപ്പോൾ ഒരു വിള്ളൽ ആരംഭിച്ചപ്പോൾ യാതൊരു പ്രതിരോധവുമില്ലാതെ അത് പ്രചരിച്ചു അവർ ഇത് മനസ്സിലാക്കുകയും ക്രാക്ക് അറസ്റ്ററുകൾ നൽകുകയും ചില കപ്പലുകളെ രക്ഷിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ കേബിൾ കാർ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം അനിശ്ചിതത്വങ്ങൾ വളരെയധികം ഉണ്ട് അനന്തരഫലങ്ങൾ വളരെ മോശമായിരിക്കും ഒരു പരാജയമുണ്ടെങ്കിൽ അവർ പത്തിന്റെ ക്രമത്തിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുന്നു ഒന്നിനോട് അടുത്ത് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മികച്ച വിശകലനം നടത്തേണ്ടതുണ്ടെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു പുരാതന ക്ഷേത്രങ്ങളിൽ ചിലത് നോക്കിയാൽ അവയെല്ലാം ഗ്രാനൈറ്റ് ഘടനകൊണ്ടാണ് നിർമ്മിച്ചത് അതിന് ഒന്നും സംഭവിക്കുകയില്ല നമുക്ക് എല്ലായിടത്തും അത്തരം ഘടന ഉണ്ടാകില്ല അതിനാൽ നമ്മൾ തീർച്ചയായും ഫാക്ടർ ഓഫ് സേഫ്റ്റി കുറച്ച്കൊണ്ടുവരേണ്ടതുണ്ട് അതിനാൽ ഉയർന്ന ഓർഡർ സുരക്ഷയുള്ളത് നല്ല എഞ്ചിനീയറിംഗ് രീതിയല്ല നമ്മുടെ സ്വന്തം രൂപകൽപ്പനയെക്കുറിച്ച് നമുക്ക് പൂർണ്ണ വിശ്വാസമില്ലെന്ന് ഇത് കാണിക്കുന്നു നമ്മൾ പല പാലങ്ങളും നോക്കുകയാണെങ്കിൽ അവയ്ക്ക് റിവറ്റഡ് ബന്ധങ്ങളുണ്ട് കപ്പലുകളിലും ബോയിലറുകളിലും നമ്മൾ അവ കണ്ടെത്തുന്നു മാത്രമല്ല അവ വിള്ളൽ പ്രചാരണത്തിനെതിരെ അന്തർനിർമ്മിത സുരക്ഷ നൽകുന്നു റിവറ്റഡ് ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് വളരെ കൃത്യമായ മെഷീനിഗ് ആവശ്യമാണ് ഇത് അത്ര ലളിതമല്ല വെൽഡിംഗ് കൂടുതൽ ലളിതമാണ് എന്നാൽ നമുക്ക് റിവറ്റഡ് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് വിള്ളൽ പ്രചാരണത്തിനെതിരായ അന്തർനിർമ്മിത സുരക്ഷയായി വർത്തിക്കുന്നു അതിനാൽ ഏതെങ്കിലും രൂപത്തിൽ വിള്ളലിന്റെ പങ്ക് അതിന്റെ പ്രചാരണം അല്ലെങ്കിൽ നിയന്ത്രണം എന്നിവ പരോക്ഷമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ചിട്ടയായ ശാസ്ത്രീയ പഠനത്തിലൂടെ മാത്രമേ ശരിയായ ധാരണ സാധ്യമാകൂ അതാണ് നമ്മൾ ഈ കോഴ്സിൽ ആരംഭിച്ചത് ഫോട്ടോ ഇലാസ്റ്റിസിറ്റിക്ക് ഹ്രസ്വ ആമുഖം ഈ കോഴ്സിനായി ഞാൻ വിപുലമായി ഫോട്ടോ ഇലാസ്റ്റിസിറ്റിയുടെ സാങ്കേതികത ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഞാൻ എന്തുചെയ്യും ഞാൻ ഈ സ്ലൈഡിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി ഫോട്ടോലാസ്റ്റിറ്റി എന്താണെന്ന് കാണും ബെൻഡിങ്നു അനുഭവപ്പെടുന്ന ബീമിൻറെ വളരെ ലളിതമായ ഒരു പ്രശ്നം ഞാൻ ഏറ്റെടുക്കും നിങ്ങളിൽ ചിലർ ഇതിനകം പരീക്ഷണാത്മക വിശകലനത്തെക്കുറിച്ച് ഒരു കോഴ്സ് നടത്തി എന്നെനിക്കറിയാം എന്താണ് ഫോട്ടോഇലാസ്റ്റിസിറ്റി എന്നും ആ കോൺണ്ടർകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും നമുക്കറിയാം പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോട്ടോലാസ്റ്റിറ്റിക്ക് എന്താണെന്ന് അറിയണമെന്നില്ല പ്രത്യേകിച്ചും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കോഴ്സിൽ നമ്മൾ സ്ട്രെസ് എന്ന ആശയം വികസിപ്പിച്ചെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് താൽപ്പര്യമുള്ള പോയിൻറ് ഇൽ എന്ത് സംഭവിക്കും എന്നതാണ് സ്ട്രെസ്ന്റെ നിർവചനമായി P ബൈ A എന്നും അതിൽനിന്ന് ഒരു പോയിൻറ് ഇൽ സ്ട്രെസ്ന്റെ അവസ്ഥയിലേക്ക് പോകുന്നു പോയിന്റിലെ സ്ട്രെസ്ന്റെ അവസ്ഥ താൽപ്പര്യമുള്ള പോയിൻറ്ലൂടെ കടന്നുപോകാൻ സാധ്യതയുള്ള എല്ലാ പ്ലെയിനിലേയും സ്ട്രെസ് വെക്ടറിന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ ഗണിതശാസ്ത്രപരമായി ഒരു സ്ട്രെസ് ടെൻസറായി നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു മോർ സർക്കിളിലേക്ക് നോക്കുന്നുമോർ സർക്കിളിലെ ഓരോ പോയിന്റും ഒരു പ്രത്യേക തലം പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഒരു ഘട്ടത്തിൽ സ്ട്രെസ്ന്റെ അവസ്ഥ എന്ന ആശയം വികസിപ്പിക്കുന്നതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ അതിനാൽ താൽപ്പര്യമുള്ള പോയിൻറ്ലൂടെ കടന്നുപോകുന്ന എല്ലാ പ്ലെയിനിലും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കുന്നു ഘടനയെ അപേക്ഷിച്ച് സ്ട്രെസ് ഫീൽഡിന്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ വളരെ അപൂർവമായി നോക്കുന്നു അതും വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ഒരു സ്ട്രെസ് കോൺസൺട്രേഷൻ പ്രശ്നം നോക്കുമ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു അറിവ് ലഭിക്കൂ നമുക്ക് അത്തരം വിവരങ്ങൾ കാണാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഞാൻ ഒരു കോൺണ്ടർ പ്ലോട്ട് ചെയ്യുന്നതിന് പോകേണ്ടതുണ്ട് എന്താണ് കോൺണ്ടർ നിർവചനം അനുസരിച്ച് കോൺണ്ടറിനൊപ്പം വേരിയബിളിന്റെ മൂല്യം സമാനമായിരിക്കും അതിനാൽ ഈ ഡൊമെയ്നിലെ സ്ഥിരമായ മൂല്യമുള്ള പോയിന്റുകൾ നമ്മൾ കണ്ടെത്തി അവ ഒരു വരയിൽ തമ്മിൽ ചേർക്കും ഇപ്പോൾ ബെൻഡിങ് അനുഭവപ്പെടുന്ന ഒരു ബീമിലെ പ്രശ്നം നമുക്ക് എടുക്കാം എനിക്ക് 4 പോയിന്റ് ബെൻഡിങ് അനുഭവപ്പെടുന്ന ഒരു ബീം ഉണ്ട് ഈ കേന്ദ്ര മേഖലയിൽ നിങ്ങളുടെ ഫ്ലെക്ചർ ഫോർമുല ബാധകമാണ് ഇതിൽ നിന്ന് ബെൻഡിങ് സ്ട്രെസ് സിഗ്മ x നമുക്ക് കണ്ടെത്താൻ കഴിയും ഇത് ലീനിയർ ആയി വ്യത്യാസപ്പെടുന്നു അതിനാൽ അതാണ് നമ്മൾ ഇവിടെയെത്തിച്ചത് ഫോട്ടോ ഇലാസ്റ്റിസിറ്റി അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ പ്രശ്നത്തിന് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ സ്വഭാവം എന്താണെന്ന് പ്ലോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പ്രശ്നം വളരെ ലളിതമാണ് നമുക്ക് സ്ട്രെസ് ഫീൽഡ് പൂർണ്ണമായും അറിയാം ഒരു പ്രിൻസിപ്പൾ സ്ട്രെസിന്റെ നിർവചനം എന്താണെന്നും നമുക്കറിയാം ഇപ്പോൾ ബീമിന്റെ ഡൊമെയ്നിലെ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ സ്വഭാവം എന്താണെന്ന് നോക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ ഇത് പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അറിവുള്ളതിനാൽ 2 മിനിറ്റ് എടുത്ത് നോക്കാൻ ശ്രമിക്കുക ഈ സ്ട്രെസ് ആഴത്തിന് ലീനിയർ ആയി വ്യത്യാസപ്പെടുന്നു ഒരു കോണ്ടൂർ എന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ അതേ മൂല്യമുള്ള ഈ ഘടനയിലെ പോയിന്റുകൾ തിരഞ്ഞെടുക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ഫ്ലെക്ചർ ഫോർമുലയിൽ നിന്ന് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉണ്ട് നിങ്ങളുടെ വിശകലനപരമായ ധാരണയിൽ നിന്ന് ചിന്തിക്കുക സ്വഭാവം എന്താണ് നിങ്ങളുടെ കോൺണ്ടർ ഇങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കുക നിങ്ങളുടെ ചിന്ത ശരിയാണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഫോട്ടോഇലാസ്റ്റിസിറ്റി ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്താം ഒപ്പം ആ കോൺണ്ടർകൾ എന്താണെന്ന് കണ്ടെത്തുക അവ പൊരുത്തപ്പെടുന്നുവെങ്കിൽ ഫോട്ടോഇലാസ്റ്റിസിറ്റി എന്താണ് നൽകുന്നതെന്ന് നമുക്ക് ഒരുതരം ധാരണയിലെത്താൻ കഴിയും കാരണം ഫോട്ടോ ഇലാസ്റ്റിസിറ്റി അവതരിപ്പിക്കുന്നതിന് ഞാൻ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു പ്രധാനമായും ഇത് സ്ട്രെസ് റൂട്ടിൽ നിന്നാണ് വരുന്നത് ഇത് നോക്കാനുള്ള മറ്റൊരു മാർഗം ക്രിസ്റ്റൽ ഒപ്റ്റിക്സിലേക്ക് പോകുക ആ സ്ഥാനത്ത് നിന്ന് ഒരു ക്രിസ്റ്റലിലൂടെ കടന്നുപോകുന്ന പോളറൈസ്ഡ് ബീമിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടെത്തുക റിഫ്രാക്റ്റീവ് സൂചികയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ അതിനുശേഷം സിഗ്മ 1 മൈനസ് സിഗ്മ 2 മായി ബന്ധിപ്പിക്കുക അതിന് കുറഞ്ഞത് 10 മുതൽ 15 വരെ പ്രഭാഷണങ്ങൾ എടുക്കും നമ്മൾ അത്തരത്തിലുള്ള ഒരു റൂട്ട് സ്വീകരിക്കില്ല നമ്മൾ ഒരു പ്രശ്നം നോക്കുന്നതിന് വളരെ ലളിതമായ ഒരു റൂട്ട് എടുക്കുകയും ഒരു കോൺണ്ടർ പ്ലോട്ട് ചെയ്യുകയും തുടർന്ന് കോൺണ്ടറുകൾ എങ്ങനെയുണ്ടെന്ന് ഒരു പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യും താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തും പ്രശ്നം വളരെ ലളിതമായതിനാൽ നമുക്ക് പറയാൻ കഴിയും സിഗ്മ 1 സിഗ്മ x ആണ് നമുക്ക് ഒരു ടെൻഷൻ വശവും കംപ്രഷൻ വശവുമുണ്ട് ടെൻഷൻ വശത്ത് സിഗ്മ 1 സിഗ്മ x ഉം സിഗ്മ 2 0 ഉം ആണ് കൂടാതെ സിഗ്മ x ലീനിയർ ആയി വ്യത്യാസപ്പെടുന്നതിനാൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 കോൺണ്ടർ മൂല്യം ആഴത്തിൽ ലീനിയർ ആയി വ്യത്യാസപ്പെടണം അതിനാൽ ഇത് മാറുന്നു എന്താണ് സിഗ്മ 1 എന്താണ് സിഗ്മ 2 എന്നിവ ടെൻഷൻ ഭാഗത്തും കംപ്രഷൻ ഭാഗത്തും മാറും പക്ഷേ ഒടുവിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ മൂല്യം സിഗ്മ x ന്റെ മൂല്യം അനുസരിച്ച് നിർണ്ണയിക്കപ്പെടും അതിനാൽ നമ്മൾ കോൺണ്ടറിന്റെ അർത്ഥം മനസിലാക്കി കോൺസ്റ്റൻസ് ബെൻഡിങ് മോമെൻറ് പ്രദേശത്ത് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 കോൺണ്ടറുകൾ തിരശ്ചീന രേഖകളായിരിക്കണം കാരണം ഇത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്ൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ലളിതമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് കൂടാതെ ഡൊമെയ്നിലെ ഓരോ പോയിന്റിനും നമുക്ക് പരിഹാരമുണ്ട് ലോഡുചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകലെ അതുകൊണ്ടാണ് ഞാൻ 4 പോയിന്റ് പിന്തുണയുള്ള ഒരു ബീം കാണിച്ചത് പക്ഷേ ഞാൻ ഒരു പ്രദേശം മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇത് പരിശോധിക്കാം ഇത് ലോഡുചെയ്യുന്ന സ്ഥാനത്ത് നിന്ന് അകലെയാണ് അവസാനം വരെ ഞാൻ ഇത് നീട്ടിയിട്ടില്ല അതിനാൽ നമ്മൾ പിന്തുണയ്ക്കുന്ന പോയിന്റുകളിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ കണ്ടെത്തും വ്യതിയാനങ്ങൾ ഉണ്ടാകും അതിനാൽ ലളിതമായ ഒരു കണക്കുകൂട്ടൽ നിങ്ങളുടെ ധാരണയുടെ ഒരു എക്സ്ട്രാപോളേഷൻ കോൺണ്ടറുകൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 തിരശ്ചീന രേഖകളായിരിക്കണമെന്ന് കാണിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോട്ടോലോസ്റ്റിക് മെറ്റീരിയലായ എപ്പോക്സിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു ബീം നിർമ്മിക്കുകയും തുടർന്ന് പോളാരിസ്കോപ്പ് എന്ന ഉപകരണത്തിൽ ഇടുകയും വളയ്ക്കുകയും ചെയ്യും ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒപ്റ്റിക്കൽ സാങ്കേതിക രീതി എന്താണ് നൽകുന്നതെന്ന് കാണാൻ പോകുന്നു കോൺണ്ടറുകൾ തിരശ്ചീനമായിരിക്കണമെന്ന് നമ്മൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് ഫലമായി നമുക്ക് എന്താണുള്ളതെന്ന് നോക്കാം ഇവിടെ ഇതാണ് ബീം നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് ബെൻഡിങ് മോമെൻറ്ന്റെ മൂല്യം ക്രമേണ 1Mb ൽ നിന്ന് അതിന്റെ ഇരട്ടിയിലേക്ക് വർദ്ധിക്കുന്നു തുടർന്ന് അതിന്റെ മൂന്നിരട്ടിയായി വർദ്ധിക്കുന്നു നമ്മൾ ഈ കേസ് നോക്കും നമുക്ക് ഇവിടെയുള്ളത് തിരശ്ചീന കോൺണ്ടർകൾ ആണ് അതിനാൽ ഇവ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺണ്ടർകളായിരിക്കണമെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം അത് തിരശ്ചീനമായിരിക്കുമെന്ന് വിശകലന കണക്കുകൂട്ടൽ കാണിച്ചത് അവ തിരശ്ചീനമാണ് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോഡിംഗ് പോയിന്റുകൾക്ക് സമീപം ചെറിയ വ്യതിയാനം ഉണ്ടാകും ഇവിടെ ഇത് ഈ മേഖലയിൽ കർശനമായി നേരെയല്ല നമുക്ക് അത് തിരശ്ചീന രേഖകളായി കാണാൻ കഴിയും മറ്റൊരു രസകരമായ കാര്യം ഇവ ഒരു പരീക്ഷണത്തിൽ യഥാർത്ഥത്തിൽ കണ്ട നിറങ്ങളാണെന്ന് നമ്മൾക്കറിയാം ഇത് പൂർണ്ണമായും ഒപ്റ്റിക്കൽ പ്രതിഭാസമാണ് ഒരു വെളുത്ത വെളിച്ചം ഉപയോഗിക്കുമ്പോൾ പ്രകൃതി അത്തരം സമ്പന്നമായ നിറങ്ങളിൽ അത് വെളിപ്പെടുത്തുന്നു ഇതു വളരെ നന്നായിരിക്കുന്നു അതിനാൽ സ്ട്രെസ് വിശകലനം നടത്താൻ നമുക്ക് ഒരു ഉത്സാഹം ലഭിക്കുന്നു കാരണം നമുക്ക് നല്ല നിറമുള്ള ഫ്രിഞ്ച്കൾ കാണാൻ കഴിയും കൂടാതെ ചില പരിശീലനത്തിലൂടെ ഫ്രിഞ്ച്കളെ 0 1 2 എന്ന് ലേബൽ ചെയ്യാൻ നമുക്ക് കഴിയും കൂടാതെ ലോഡ് മൂന്നിരട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഉയർന്ന എണ്ണം ഫ്രിഞ്ച്കൾ ഉണ്ടായിരിക്കും അതിനാൽ ലീനിയർ ഇലാസ്റ്റിസിറ്റിയിൽ ലോഡ് ഇരട്ടിയാകുകയും ലോഡ് മൂന്നിരട്ടിയാകുകയും ചെയ്യുമ്പോൾ സ്ട്രെസ് ക്രമേണ വർദ്ധിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അതിനാൽ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണിൽ എനിക്ക് ലഭിക്കുന്ന കോൺണ്ടറുകൾ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ രൂപരേഖയായി കണക്കാക്കാമെന്ന് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാം ഇത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒന്നാണ് എന്നാൽ നമ്മൾ എടുത്ത പ്രശ്നം വളരെ സവിശേഷമാണ് നമ്മൾ സിഗ്മ x ന്റെ കോൺണ്ടറുകൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവ തിരശ്ചീനമായി തുടരുമായിരുന്നു പക്ഷേ അത് ഒരു പ്രത്യേക കേസ് മാത്രമാണ് ഒരു പൊതു പരിതസ്ഥിതിയിൽ ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 മാത്രമാണ് ഇത് ഫോട്ടോലാസ്റ്റിക് ഇഫക്റ്റിന് സെൻസിറ്റീവ് ആണ് അതാണ് നമുക്ക് ഒരു ഫോട്ടോഎലാസ്റ്റിക് പരിശോധനയിൽ ലഭിക്കുന്നത് മാത്രമല്ല ഈ കോൺണ്ടറുകൾക്ക് ഒരു പ്രത്യേക നാമമുണ്ട് ഈ കോൺണ്ടറുകളെ ഐസോക്രോമാറ്റിക്സ് എന്ന് വിളിക്കുന്നു ഐസോ എന്നാൽ സ്ഥിരമാണ് ക്രോമ എന്നാൽ നിറം എന്നാണ് അതിനാൽ ഇവ നിരന്തരമായ നിറത്തിന്റെ കോൺണ്ടറുകൾ ആണെന്ന് അതിൽ പരാമർശിക്കുന്നു അതാണ് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് ലളിതമായ ഫോട്ടോലാസ്റ്റിക് പരിശോധനയിൽ സ്ഥിരമായ നിറത്തിന്റെ കോൺണ്ടറുകൾ നമുക്ക് ദൃശ്യമാകും ഒരു വിള്ളലിന്റെ തീവ്രതയെക്കുറിച്ചുള്ള ഫോട്ടോലാസ്റ്റിക് അപ്രീസിയേഷൻ ഇപ്പോൾ നമുക്ക് അല്പം പുറകിലേക്ക് പോയി കുറച്ചു നല്ല താരതമ്യങ്ങൾ കാണാം ഇവിടെ എനിക്ക് ഒരു പ്ലേറ്റ് ഉണ്ട് അതിലൊരു ദ്വാരമുണ്ട് ഉണ്ട് അത് വൃത്താകൃതിയിലുള്ള ദ്വാരമാണ് തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി കോഴ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് നമ്മൾ വളരെ ചെറിയ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റ് എടുക്കുന്നു വാസ്തവത്തിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ മനസ്സിലാക്കുന്നതിന്റെ പരിണാമം പരിശോധിക്കുകയാണെങ്കിൽ ഉയർന്ന ശാസ്ത്രജ്ഞർ തമ്മിൽ വളരെയധികം സംവാദങ്ങൾ നടന്നിരുന്നു കൂടാതെ ഗണിതശാസ്ത്രജ്ഞർ ഒരു ചെറിയ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റിനെ ഒരു ദ്വാരമില്ലാത്ത ഒരു പ്ലേറ്റിന് തുല്യമാണെന്ന് വാദിക്കുന്നു വാസ്തവത്തിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് അംഗീകരിക്കാൻ ശ്രമിക്കുന്നതിൽ ആളുകൾ കടുത്ത ചർച്ചകൾ നടത്തി ആ ദിവസങ്ങളിൽ മാത്രം ഫോട്ടോഇലാസ്റ്റിസിറ്റി വികസിക്കുകയും ഫോട്ടോലാസ്റ്റിറ്റിയിൽ നിന്നുള്ള ഫലങ്ങൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന ആശയം സ്ഥാപിക്കാൻ വളരെ ഉപയോഗപ്രദമായിരുന്നു അതിനാൽ നമ്മൾ ഒരു വിശകലന സമീപനം നടത്തുമ്പോൾ നമ്മൾ ഒരു ചെറിയ ദ്വാരമുള്ള അനന്തമായ പ്ലേറ്റ് എടുക്കുന്നു നമുക്ക് ഒരു ഫൈനൈറ്റ് പ്ലേറ്റിലേക്ക് പോകണമെങ്കിൽ വിശകലന സമീപനം മതിയാകില്ല ഒന്നുകിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തേണ്ടിവരും അല്ലെങ്കിൽ നമ്മൾ ഒരു സംഖ്യാ വിശകലനം നടത്തേണ്ടതുണ്ട് ഇവിടെ നമുക്കുള്ളത് ഒരു ദ്വാരമുള്ള ഒരു പരിമിത പ്ലേറ്റാണ് നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം എടുത്തിട്ടുണ്ട് വൃത്താകൃതിയിലുള്ള ദ്വാര വ്യാസം 12 മില്ലിമീറ്ററാണ് ഇത് ഒരു എലിപ്ടിക്കൽ ആകൃതിയിലുള്ള മറ്റൊരു കേസാണ് വീണ്ടും പ്രധാന അക്ഷം 12 മില്ലിമീറ്ററാണ് ഇവിടെ നമുക്ക് ഒരു അരികിൽ നിന്ന് ഒരു വിള്ളൽ വരുന്നു അതിന് 12 മില്ലിമീറ്റർ നീളമുണ്ട് എനിക്ക് ഒരു വിള്ളൽ കേന്ദ്രത്തിൽ ഉള്ള ഒരു ഉദാഹരണം എടുക്കേണ്ടതായിരുന്നു സെന്റർ ക്രാക്ക് ഒരു പരീക്ഷണത്തിൽ നിർമ്മിക്കാൻ പ്രയാസമാണ് അതിനാൽ ഒരു എഡ്ജ് ക്രാക്ക് ഉപയോഗിക്കുന്നു നമ്മൾ ഇവിടെ എന്താണ് കണ്ടെത്തുന്നത് ഞാൻ ആനിമേഷൻ ചെയ്യുമ്പോൾ ലോഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഫ്രിഞ്ച്കൾ വികസിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ബാർ ഉണ്ട് ഇത് 7 വരെ ഉയരുന്നു ഇപ്പോൾ എനിക്ക് ലോഡിംഗ് 7 ആയിരിക്കുമ്പോൾ ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരത്തിന്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഫ്രിഞ്ച് പാറ്റേൺ ഉണ്ടെന്ന് നോക്കാം എനിക്ക് ലോഡിംഗ് 7 ഉള്ളപ്പോൾ ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ കാര്യത്തിലും ഒരു വിള്ളലിന്റെ കാര്യത്തിലും നമ്മൾ കാണുന്നത് എന്താണ് നിങ്ങൾ അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സവിശേഷതകൾ വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം അതിനാൽ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻറെ വ്യത്യസ്ത പ്രശ്നങ്ങൾക്കായി സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺണ്ടറുകൾ നമ്മൾ കാണുന്നു ഒപ്പം നമുക്ക് ശ്രദ്ധേയമായ ഒരു സവിശേഷതയുമുണ്ട് എനിക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ എനിക്ക് ഫ്രിഞ്ച്കൾ ക്രാക്ക് ആക്സിസ്ന് സിമട്രിക്കൽ ആണ് അവ മുന്നോട്ട് ചരിഞ്ഞവയുമാണ് ഇത് ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നു നമുക്ക് ഇതും ഇതുപോലെ മുന്നോട്ട് ചരിഞ്ഞിരിക്കുന്നു മാത്രമല്ല നമ്മൾ ഇവിടെ കാണുന്ന ശ്രദ്ധേയമായ ഒരു സവിശേഷത ഇത് ലോഡ് 7 നാണ് വൃത്താകൃതിയിൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം ഫ്രിഞ്ച്കൾ ഉണ്ട് ഒരു എലിപ്റ്റിക്കൽ ദ്വാരത്തിന്റെ കാര്യത്തിൽ ഫ്രിഞ്ച് വലുതായിത്തീർന്നിരിക്കുന്നു കൂടാതെ ദ്വാരത്തിന്റെ അരികിൽ മറ്റൊരു ഫ്രിഞ്ച് പുറത്തേക്ക് വരുന്നതും നമ്മൾ കാണുന്നു അതേസമയം ഒരു വിള്ളലിന്റെ കാര്യത്തിൽ ഒരു വലിയ എണ്ണം ഫ്രിഞ്ച്കൾ നമ്മൾ കാണുന്നു ഒരു വിള്ളലിന്റെ കാര്യത്തിൽ ഇത് കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഒരു ഗണിതശാസ്ത്ര വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം എലിപ്റ്റിക്കൽ ദ്വാരം വിള്ളൽ എന്നിവയുടെ പങ്ക് താരതമ്യം ചെയ്യുമ്പോൾവിള്ളലിന് ധാരാളം ഫ്രിഞ്ച്കളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നുവിള്ളൽ വളരെയധികം അപകടകരമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ക്രാക്ക് കൂടുതൽ അപകടകരമാണ് എന്നതാണ് നമുക്ക് സന്ദേശമായി ലഭിക്കുന്നത് അത് ശരിവയ്ക്കുന്നതിനായി നമ്മൾ ഗണിതശാസ്ത്രത്തെ വികസിപ്പിക്കും അതാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കോഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുരുക്കത്തിൽ ഈ ക്ലാസ്സിൽ മറ്റ് 2 പ്രശസ്തമായ പരാജയങ്ങൾ നമ്മൾ പരിശോധിച്ചു ആ പരാജയങ്ങളിലെ പൊതുവായ സ്വഭാവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ലോഡിംഗിന്റെ ഉയർന്ന നിരക്ക് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി ഘടനയിൽ മൊത്തത്തിൽ വലിയ പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിച്ചിട്ടില്ലെങ്കിലും പരാജയം ബ്രിട്ടിൽ ആയിരുന്നു തുടർന്ന് ഫ്രാക്ചർ ഒരു ശാപമാണോ അതോ അനുഗ്രഹമാണോ എന്നും നമ്മൾ പരിശോധിച്ചു ദൈനംദിന ജീവിതത്തിൽ ഫ്രാക്ചർ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടെത്തി അത് ഒഴിവാക്കാനാവില്ല ചില ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ഫ്രാക്ചർ ആവശ്യമാണ് മറ്റ് ചില ആപ്ലിക്കേഷനുകളിൽ ഫ്രാക്ചർ തടയേണ്ടതുണ്ട് തുടർന്ന് ഫോട്ടോഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനകാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചു നമുക്ക് ഇപ്പോൾ മുതൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഫ്രിഞ്ച്കളും സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺണ്ടറുകളെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് കണ്ടെത്താനാകും